എല്ലാവർക്കും നമസ്കാരം ഈ കോഴ്സിന്റെ അവസാന ഘട്ടമായ നാല്പതാമത്തെ പ്രഭാഷണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന യാണ് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ രണ്ടുമാസമായി നമ്മൾ പതിവായി കണ്ടുമുട്ടുന്നു നിങ്ങളുടെ പഠനപ്രക്രിയയിൽ ഉപകാരപ്രദമായ പ്രഭാഷണങ്ങളും അസൈൻമെൻറ്കളും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഒരു അവസാനം പ്രഭാഷണം ആയതിനാൽ ഈ കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ഹ്രസ്വമായ റീ ക്യാപ് നമ്മൾ നടത്തുകയാണ് പഠനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഇനിയും എന്ത് ചെയ്യാം എന്നും ഭാവി പഠനത്തിനുള്ള വഴികൾ എന്താണെന്നും നമുക്ക് കൂടെ ചർച്ച ചെയ്യാം ഇത് വിവിധതരം വിദ്യാർഥികളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത ജീവിത ശൈലിയിലുള്ള വിദ്യാർഥികളുടെ ഒരു മിശ്രിതം ആണെന്ന് എനിക്കറിയാം കാരണം ഈ കോഴ്സിനെ വിവിധ ഫാക്കൽറ്റികൾ നിന്നുള്ള വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഉണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉണ്ട് മാനേജ്മെൻറ് വിദ്യാർത്ഥികളുണ്ട് കല അല്ലെങ്കിൽ ശാസ്ത്രം പോലുള്ള വാണിജ്യേതര വിദ്യാർത്ഥികളുണ്ട് കുറച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികളുണ്ട് ചില സംരംഭകര് വീട്ടമ്മമാരും ഉണ്ട് Basic knowledge of accountingഉണ്ടായാൽ അത് സമൂഹത്തിലെ മിക്കവാറും എല്ലാവർക്കും ഉപയോഗപ്രദമാകും അതിനാൽ അക്കൌണ്ടിംഗ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെകുറിച്ചുള്ള ചർച്ചയോടെയാണ് നമ്മൾ ആരംഭിച്ചത് അക്കൌണ്ടിംഗ് എന്നാൽ ബിസിനസിൻറെ ഭാഷയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇടപാടുകൾ അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തിക പ്രസ്താവനകൾ നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നു തുടർന്ന് അതിനെ സംഗ്രഹിക്കുകയും അതിൽ നിന്നും റിപ്പോർട്ടുകൾ നിർമ്മിക്കുന്നതിനെ ആണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ എന്ന് വിളിക്കുന്നത് ഇത് ബിസിനസ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല ലാഭേച്ഛയില്ലാത്ത ഓർഗനൈസേഷൻകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഒരുപോലെ ഉപയോഗപ്രദമാണ് വാസ്തവത്തിൽ ഇത് ഒരു കുടുംബത്തിനും ഉപയോഗപ്രദമാണ് കാരണം ഒരു കുടുംബത്തിൻറെ ചെലവുകളും വരുമാനവും അറിയുന്നതിന് ശരിയായ സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കിയാൽ അത് ഗുണകരമാകും ശേഷം നമ്മൾ മൂന്ന് പ്രധാന സാമ്പത്തിക പ്രസ്താവനകളെ പറ്റി ചർച്ച ചെയ്തു ആദ്യമായി ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആരംഭിച്ചു അതിനാൽ ഒരു പ്രത്യേക തീയതിയിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നൽകുന്ന ഒരു പ്രസ്താവനയാണ് ബാലൻസ് ഷീറ്റ് ഏത് തീയതി യിലും നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് നിർമ്മിക്കാൻ കഴിയും എന്നാൽ സാധാരണയായി ഇത് Quarter അവസാനത്തിലാണ് തയ്യാറാക്കുന്നത് 3മാസത്തിന്റെ അവസാനത്തിലോ ചിലപ്പോൾ ഒരു വർഷത്തിന് അവസാനത്തിലോ ആകാം ഒരു നിർദിഷ്ട ഫോർമാറ്റ് ഉണ്ട് ആദ്യമായി ആസ്തികളും ബാധ്യതകളും ഉണ്ടെന്നു മനസ്സിലാക്കുക ക്യാഷ് ഭൂമി കെട്ടിടം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്നിവയുടെ പേറ്റൻറ്കൾ എന്നിവയെല്ലാം ആസ്തികളിൽ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇവയ്ക്കെല്ലാം ആരെയെങ്കിലും ധനസഹായം നൽകേണ്ടതുണ്ട് അത്തരം ധനസഹായങ്ങൾ ബാധ്യതകളാണ് ബാധ്യത രണ്ടുതരത്തിലുണ്ട് ഒന്ന് NCL അതായത് നോൺ കറൻറ് ബാധ്യതകൾ അഥവാ ദീർഘകാല ബാധ്യതകൾ രണ്ടാമത്തേത് Current ബാധ്യതകൾ ഈ നോൺ കറണ്ട് ബാധ്യതകളിൽ പ്രധാനമായും ഉൾപ്പെടുന്നവ ഉടമകളുടെ ഫണ്ടുകൾ അതായത് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് വർത്ത് തുടർന്ന് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഇതര ബാധ്യതകൾ ഉണ്ടാകും അതിൽ പ്രധാനമായും കടം വാങ്ങിയ പണം ഉൾപ്പെടുന്നു ഇതൊക്കെയാണ് ബാലൻസ് ഷീറ്റ് ഉള്ളത് ബാലൻസ് ഷീറ്റ് വിശകലനം വളരെ ഉപയോഗപ്രദമാണ് കാരണം ആസ്തിയുടെയുംബാധ്യതകളുടെയുംരൂപത്തിൽബിസിനസിനെ ശക്തിയും ബലഹീനതയും നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ ബിസിനസ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ളതല്ല ഒരു പുതിയ ഓർഗനൈസേഷൻ ബാലൻസ് ഷീറ്റ് പഠിക്കുകയാണെങ്കിൽ അതായത് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് അവിടത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആരെല്ലാം ആണ് അതിനെ ധനസഹായം നൽകുന്നത് അതിനാൽ നമ്മൾ ആദ്യം അടിസ്ഥാന ഫോർമാറ്റുകൾ കണ്ടു പിന്നീട് കമ്പനി നിയമപ്രകാരം ഉള്ള ബാലൻസ് ഷീറ്റ് ഫോർമാറ്റും നമ്മൾ കണ്ടു അടുത്തതായി ലാഭനഷ്ട അക്കൌണ്ടിലേക്ക് നമുക്ക് പോകാം ലാഭനഷ്ട അക്കൌണ്ട് അല്ലെങ്കിൽ വരുമാന പ്രസ്താവന ഒരു പ്രധാന പ്രസ്താവനയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇത് എല്ലാ വരുമാനങ്ങളും പട്ടികപ്പെടുത്തുന്നു എവിടെനിന്നാണ് വരുമാനം ഉണ്ടാക്കുന്നത് അതിനെ ചെലവുമായി ബന്ധപ്പെടുത്തുന്നു ചെലവുകളിൽ എല്ലാ വിഭാഗങ്ങളെയും പട്ടികപ്പെടുത്തും അതിനായി ആദ്യം നമ്മൾ നിർമ്മാണ ചെലവുകൾ വാങ്ങലുകൾ പോലുള്ള പ്രവർത്തന ചെലവുകൾ കാണിക്കും തുടർന്ന് വാടക പരസ്യം ചെയ്യൽ മാർക്കറ്റിങ് ചെലവുകൾ എന്നിവ പോലുള്ള കാണിക്കും ഇതെല്ലാം ധനകാര്യ ചെലവുകളാണ്തുടർന്ന് Depreciation പോലുള്ള പണമില്ലാത്ത ചിലവും കാണിച്ചാൽ നിങ്ങൾക്ക് ആദ്യം ലെവൽ ലാഭം അതായത് പ്രവർത്തന ലാഭം ലഭിക്കും നിങ്ങൾ ഫൈനാൻസ് ചെലവ് പരിഗണിക്കുന്നില്ല എങ്കിൽ പ്രവർത്തന ലാഭത്തിൽ നിന്ന് നിങ്ങൾ ഫൈനാൻസ് ചെലവ് കുറയ്ക്കുക അപ്പോൾ PBIT PBIT എന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതിൽ നിന്നും ഫൈനാൻസ് ചെലവ് കുറച്ചാൽ PBT ലഭിക്കും ആ PBT നിന്നും നികുതി ചെലവ് കുറച്ചാൽ PAT ലഭിക്കും ഇത് ഉടമകൾക്ക് ലഭ്യമായ ലാഭമാണ് അതിൽ നിന്ന് ലാഭം ഡിവിഡൻകളുടെ രൂപത്തിൽ ഉടമകൾക്ക് വിതരണംചെയ്യും ശേഷിക്കുന്ന ലാഭത്തെ Retained Earnings എന്നു വിളിക്കുന്നു അവയെ നമ്മൾ ബാലൻസ് ഷീറ്റിലെ റിസർവ് ആൻഡ് സർപ്ലസ് അതായത് ഉടമസ്ഥരുടെ പണത്തിൻറെ കൂടെ മറ്റൊരു തലക്കെട്ടിൽ ആയി കാണിക്കുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ പ്രധാന പ്രസ്താവന യിലേക്ക് നമ്മൾ നീങ്ങുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ Cash Flow നെ കുറിച്ച് പറയുന്ന പ്രസ്താവനയാണിത് PL AC ബിസിനസിനെ ലാഭക്ഷമത മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിലും പണം എവിടെനിന്നു വരുന്നു ഏതുവിധത്തിൽ പണം വിനിയോഗിക്കുന്നു എന്ന് അത് നമ്മളോട് പറഞ്ഞില്ല അതിനാലാണ് ഒരു Cash Flow statement നിർമ്മിക്കുന്നത് എല്ലാ Cash Flow കളും മൂന്നു തലക്കെട്ടുകൾക്ക് കീഴിൽ തരംതിരിച്ചിരിക്കുന്നു അതിനാൽ മൂന്നു തലക്കെട്ടുകൾ ഉണ്ട് അവ ഏതെല്ലാം ആണെന്ന് ഓർക്കുന്നുണ്ടോ ആദ്യത്തേത് operating cash flows ഇത് എന്റിറ്റിയുടെ സാധാരണ ബിസിനസ് പ്രവർത്തനമാണ് അല്ലെങ്കിൽ എന്റിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ആണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ സാധാരണയായി വരുന്നതും പോകുന്നതുമായ പണത്തിനെ പറ്റി സൂചിപ്പിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രവർത്തനങ്ങൾ സാധാരണയായി പരോക്ഷ രീതി ഉപയോഗിക്കുന്നു നികുതി ക്ക് മുമ്പുള്ള ലാഭത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് Add Non Cash items അപ്പോൾ Non Cash ഇനങ്ങൾ ഏതാണ് Depreciationനമ്മൾ ചേർക്കും അതുപോലെ എഴുതിത്തള്ളിയ ഏതെങ്കിലും പ്രത്യേക തുക നമ്മൾ ചേർക്കും ഇനി എന്തിനാണ് നമ്മൾ Depreciationചേർക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഞാൻ ഓർമ്മ പുതുക്കുകയാണ് കാരണം ഇവിടെ പലരും ആശയക്കുഴപ്പത്തിൽ ആകുന്നു ഒരുവശത്ത് PL നിർമ്മിക്കുമ്പോൾ നമ്മൾ Depreciation കുറയ്ക്കുന്നു പക്ഷേ Cash flow നിർമ്മിക്കുമ്പോൾ നമ്മൾ Depreciation ആഡ് ചെയ്യുന്നു കാരണം ഇത് പണം അല്ലാത്ത ഒരു ചെലവ് ആയതിനാൽ നമ്മൾ ഇതിനെ പണം ഒന്നും നൽകിയിട്ടില്ല പക്ഷേ ലാഭം അല്ലെങ്കിൽ PBT കണക്കാക്കുന്നതിനായി ഇത് കുറയ്ക്കുന്നു അതിനാൽ നമ്മൾ ഇവിടെ PBT എടുക്കുന്നു Add Depreciation കൂടെ ഓപ്പറേറ്റിങ് ഇതര ഇനങ്ങൾ നമ്മൾ Adjustment നടത്തുന്നു ഉദാഹരണത്തിന് ഷെയറുകളുടെ വിൽപ്പനയിൽ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ Cash Flow Statement ൽ എടുക്കും നമ്മൾ ഈ ലാഭം ചേർക്കുമോ അതോ ലാഭം കുറയ്ക്കുമോ ചിന്തിക്കുക നിങ്ങൾ ഭൂരിഭാഗവും ശരിയാണ് നമ്മൾ ഈ ലാഭം കുറയ്ക്കും വീണ്ടും ആശയക്കുഴപ്പം അല്ലേ കാരണം ലാഭം വരുമ്പോൾ അത് ചേർക്കണമെന്ന് നമ്മൾക്ക് തോന്നുന്നു പക്ഷേ വാസ്തവത്തിൽ ഇത് കുറയ്ക്കണം കാരണം ഇത് ഇതിനകം തന്നെ ലാഭം കണക്ക് ആക്കുന്നതിനായി പരിഗണിക്കുകയും അതൊരു ഓപ്പറേറ്റിങ് ഇനവും അല്ല അതിനാൽ നമുക്ക് അത് നീക്കം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ആണ് നമ്മൾ ഇതിനെ കുറയ്ക്കുന്നത് അതിനാൽ പ്രവർത്തനത്തിൽ നിന്നുള്ള ലാഭം ഷെയറുകളുടെ വിൽപനയിൽ നിന്നുള്ള ലാഭം പോലെയാണ് അതിനാൽ നാം കുറയ്ക്കുന്നു ചില നോൺ ഓപ്പറേറ്റിങ് ഇനങ്ങൾ കാരണം എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ ഉദാഹരണമായി old machineryകളുടെ വില്പനയിൽ നഷ്ടം പറയട്ടെ അത് ഒരു നഷ്ടമായതിനാൽ add അതിനാൽ പണം അല്ലാത്തതും നോൺ ഓപ്പറേറ്റിങ് ഇനങ്ങളും ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ലഭിക്കും ഇതിൽ നിന്നും പ്രവർത്തനമൂലധനം ഇനങ്ങൾക്കായി നമ്മൾ ക്രമീകരണം നടത്തും അതിനാൽ Inventory Debtorscreditors എന്നിവ ഇ cash flow statement ൽഏതുനിമിഷവും ക്രമീകരിക്കപ്പെടുകയും കാരണം ഇത് പണത്തിൻറെ ലഭ്യതയെ ബാധിക്കുന്നു ഉദാഹരണത്തിന് Debtors യോ Receivables ൻറെയോ തുക വർഷത്തിൽ കുറഞ്ഞു എങ്കിൽ അതിനർത്ഥം നമ്മളുടെ ശേഖരണ ശ്രമങ്ങൾ മികച്ചതായിരുന്നുവെന്നും കടക്കാർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പണമടച്ചു എന്നുള്ളതാണ് അർത്ഥം അതിനാൽ അവരുടെ കുടിശ്ശികയിൽ കുറവ് വന്നിരിക്കുന്നു അതിനാൽ കടക്കാരുടെ തുക കുറയ്ക്കുക എന്നത് Cash Flow statementലെ ഒരു പ്ലസ് ഇനമാണ് ഇത് ഓർമ്മയിൽ വെക്കുക കടക്കാരുടെ തുക കുറയുന്നതിനെ അർത്ഥം കൂടുതൽ പണം ലഭിച്ചു എന്നുള്ളതാണ് ആണ് ഇതേ നിയമം ഇൻവെന്ററിക്ക് ബാധകമാകും Creditors കാര്യം ആകുമ്പോൾ അത് തികച്ചും വിപരീതമായിരിക്കും Current ആസ്തി കുറയുന്നത് Add എന്നാൽ Current Liabilities കുറയുന്നത് കുറയ്ക്കും അതിനാൽ ഈ ഘട്ടത്തിൽ പ്രവർത്തനം മൂലധന ഇനങ്ങൾ നമ്മൾ ക്രമീകരിക്കുമ്പോൾ നികുതി ക്ക് മുമ്പുള്ള പ്രവർത്തന ലാഭം ലഭിക്കും തുടർന്ന് അടച്ച നികുതി പണം കുറയ്ക്കും അപ്പോൾ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള Cash Flow ലഭിക്കും Cash Flow Statement ആദ്യഭാഗം ആണിത് ഇത് താരതമ്യേന സങ്കീർണമാണ് മാത്രമല്ല ഇത് ദൈർഘ്യമേറിയ ഭാഗവുമാണ് ഇതിനു ശേഷം രണ്ട് തലക്കെട്ടുകൾ ഉണ്ട് അതിൽ ആദ്യത്തേത് നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമാണ് അതിൽ ദീർഘകാല നിക്ഷേപം ഉൾപ്പെടുന്നു സ്ഥിര ആസ്തികൾ പോലുള്ള NCA ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഈ ഇനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു പോകുന്നതോ വരുന്നതോ ആയ ഏതെങ്കിലും പണം നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിനു കീഴിൽ കാണിക്കും മൂന്നാമത്തേത് ധനകാര്യ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമാണ് അതിനാൽ ബിസിനസ്സിനായി സ്വീകരിച്ച ഏതെങ്കിലും പണം അല്ലെങ്കിൽ അവ തിരിച്ചടവിനായി പോയിട്ടുണ്ടെങ്കിൽ ഇവ ഇതിനു കീഴിൽ ഉൾപ്പെടുത്തും ഉദാഹരണങ്ങളായി ഷെയറുകളുടെ ഇഷ്യു അല്ലെങ്കിൽ ഷെയറുകൾ തിരിച്ചു വാങ്ങൽ ഡിബഞ്ചറുകളുടെ ഇഷ്യു അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ വീണ്ടെടുക്കൽ വായ്പ എടുക്കാൻ വായ്പാ തിരിച്ചടക്കൽ ഈ ഇടപാടുകളെല്ലാം ധനകാര്യ ഇനത്തിൽ ആയിരിക്കും പലിശയെ കുറിച്ചും ലാഭവിഹിതത്തെ കുറിച്ചും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിക്ഷേപങ്ങളിൽ നിന്നും പലിശ ലഭിച്ചാൽ അത് നിക്ഷേപത്തിൽ നിന്നു ലഭിച്ച പണം ആയി കാണിക്കുക ലാഭവിഹിതവും ഇതുപോലെയാണ് എന്നാൽ പലിശ അടയ്ക്കുമ്പോഴോ ഡിവിഡൻഡ് അടയ്ക്കുമ്പോഴോ അതൊരു ധനകാര്യ ഇനമായി കാണിക്കും cash flow statementൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും പണം ഇതര ഇടപാടുകൾ ഉണ്ടെങ്കിൽ കുറുപ്പിൽ നമ്മൾ കാണിക്കും അത്തരം പണം അല്ലാത്ത ഇടപാടുകൾ ഏതൊക്കെയാണ് ഉദാഹരണത്തിന് ഒരു ഷെയർ സ്വാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ഷെയർ സ്വാപ്പ് നമ്മൾ മറ്റൊരു കമ്പനിയെ സ്വന്തമാക്കുകയാണ് എന്ന് കരുതുക അതിനായി നമ്മൾ നമ്മുടെ ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നു പകരം ആ കമ്പനിയുടെ ഓഹരികൾ നമുക്ക് ലഭിക്കുന്നു ഇതൊരു ഷെയർ സ്വാപ്പ് ഡീൽ ആണ് ഇതിൽ പണമിടപാട് നടക്കുന്നില്ല അതിനാൽ ഇത് Cash Flow Statement ൽവരുന്നില്ല പകരം ഒരു അടിക്കുറിപ്പായി കാണിക്കും ഇതുപോലെ വേറെയും ഇടപാടുകൾ ഉണ്ട് ഉദാഹരണത്തിന് നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ട കുടിശ്ശികയുള്ള ചില വായ്പകൾ നിലനിൽക്കുന്നുണ്ട് വായ്പ പണം നൽകുന്നതിന് പകരം നമ്മൾ അവർക്ക് ഷെയർ ഇഷ്യു ചെയ്യുന്നു അതിനാൽ നമ്മുടെ ക്യാപിറ്റൽ ബാലൻസ് വർദ്ധിക്കുകയും വായ്പയുടെ ബാലൻസ് ഒരു പണവും ഉൾപ്പെടുത്താതെ കുറയുകയും ചെയ്തു അതിനാൽ ഇതൊരു പണം ഇതര ഇടപാടായി മാറും അതിനാൽ നമ്മൾ ഇത് Cash Flow ൽ കാണിക്കില്ല പക്ഷേ നമ്മൾ ഇതൊരു അടിക്കുറിപ്പായി കാണിക്കും നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഒരു cash flow statementപ്രധാന പ്രസ്താവന ആയതിനാൽ പങ്കെടുക്കുന്നവർക്ക് അതിൽ പലതവണ ആശയക്കുഴപ്പത്തിൽ ആയതിനാലാണ് ഞാൻ കുറച്ചു വിശദമായി പോയത് അതിനാൽ മൂന്ന് ധനകാര്യ പ്രസ്താവനകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു നിങ്ങളോട് മുന്നത്തെ Sessionകളിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രസ്താവനകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ക്ലാസിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്രം പോരാ അതിനാൽ ആദ്യത്തെ രണ്ട് മൂന്ന് സെഷനുകളിൽ തന്നെ നിങ്ങളോട് ഞാനാവശ്യപ്പെട്ടു ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുക വാർഷിക റിപ്പോർട്ട് ഡൌൺലോഡ് ചെയ്യുക വാർഷിക റിപ്പോർട്ട് ശ്രദ്ധാപൂർവ്വം വായിക്കുക പ്രത്യേകിച്ച് അതിൻറെ സാമ്പത്തിക പ്രസ്താവന ഭാഗം നിങ്ങൾ ആ അസൈൻമെൻറ് പൂർത്തിയാക്കി ആവശ്യമായ വിശദാംശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആവശ്യമായ വിശദാംശങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരുടെ PL ബാലൻസ് ഷീറ്റ് Cash Flow എന്നിവ വായിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു മറ്റു കമ്പനികളുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ്കളും നിങ്ങൾക്ക് പരിശോധിക്കാം അതുവഴി വ്യത്യസ്ത കമ്പനികൾ അവരുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം സാമ്പത്തിക പ്രസ്താവനകൾ കൂടാതെ വാർഷിക റിപ്പോർട്ടിൽ ഉപയോഗപ്രദമായ നിരവധി വിവരങ്ങൾ ഉണ്ടാകും അതിനെപ്പറ്റി നമ്മൾ ക്ലാസിൽ ചർച്ച ചെയ്തിരുന്നു മറ്റെന്തെല്ലാം ആണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കോർപ്പറേറ്റ് ഭരണ റിപ്പോർട്ട് ഉണ്ടാകും സുസ്ഥിരതാ റിപ്പോർട്ട് ഉണ്ടാകും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജീവനക്കാരുടെ പട്ടിക ഉണ്ടാകുംഡയറക്ടർമാരുടെ റിപ്പോർട്ട് ഉണ്ടാകുംഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കുംആ കമ്പനിയെ കുറിച്ചുള്ള വിവിധ വിവരങ്ങളും ചിലപ്പോള് വ്യവസായത്തെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാകും അതിനാൽ ദയവായി ആ വിവരങ്ങളിലൂടെയും പോകുക ക്ലാസിൽ പ്രത്യേകിച്ചും സാമ്പത്തിക പ്രസ്താവനകൾ ചർച്ച ചെയ്തതിനുശേഷം നമ്മൾ ചില ആശയപരമായ ഭാഗങ്ങളിലേയ്ക്ക് പോയി പരമ്പരാഗത സമ്പ്രദായത്തിൽ ആദ്യം ജേണൽ എൻട്രികൾ ഉണ്ടാക്കിയ ശേഷം ആണ് ലെഡ്ജർ അക്കൌണ്ടിലേക്ക് പോയിരുന്നത് ലെഡ്ജർ നിന്ന് ട്രയൽ ബാലൻസ് ലേക്ക് വരുന്നു ട്രയൽ ബാലൻസ് നിന്ന് PL ബാലൻസ് ഷീറ്റ് എന്നിവ നിർമ്മിക്കാൻ ആണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് നമ്മൾ വിപരീത വഴിയിലൂടെയാണ് പോയത് ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് പഠിച്ചുതുടർന്ന് വരുമാന പ്രസ്താവനതുടർന്ന്Cash Flow Statement ഈ പ്രസ്താവനകൾ തയ്യാറാക്കുന്നതിനുള്ളവഴികളെക്കുറിച്ച്നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് അക്കൌണ്ടിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ഹാർഡ് കോർ ക്ലാസ് അല്ലാത്തതിനാൽ ഇത് പ്രധാനമായും കുറഞ്ഞ സമയം കൊണ്ട് നോൺ അക്കൌണ്ടിംഗ് പ്രൊഫഷണലുകൾക്കാണ് അതിനാൽ മുഴുവൻ കോഴ്സും 20 മണിക്കൂറിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോൾ ഈ ഘട്ടത്തിൽ രണ്ട് പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒന്ന് Depreciation Depreciation രീതികൾ Depreciation എങ്ങനെ കണക്കാക്കുന്നു അടുത്തത് FIFO പോലുള്ള inventory രീതികൾ അല്ലെങ്കിൽ വെയിറ്റ്ഡ് ആവറേജ് രീതികൾ എന്നിട്ട് നമ്മൾ ചില ആശയപരമായ ചർച്ചകളിലേക്ക് പോയി അതായത് കോർപ്പറേറ്റ് ഭരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു എന്താണ് കോർപ്പറേറ്റ് ഭരണം ഭരണത്തിൻറെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ് ഭരണത്തിൻറെ പരാജയം വിവിധ തട്ടിപ്പുകളുടെ ദുരുപയോഗത്തിലേക്ക് നയിക്കുന്നു അതിനാൽ ഏറ്റവും വലിയ ആഗോള തട്ടിപ്പുകളിൽ ഒന്നായ എൻറോണിന്റെ ഒരു ഉദാഹരണമായി നമ്മൾ ചർച്ച ചെയ്തു തുടർന്ന് ആഗോള കോർപ്പറേറ്റ് ഭരണത്തിൻറെ മോഡലുകളായ ആംഗ്ലോ യുഎസ് മോഡൽ ബാങ്കിംഗ് ആധിപത്യമുള്ള ജപ്പാനിലെയും ജർമനിയിലെയും മോഡൽ സർക്കാർ ആധിപത്യമുള്ള ചൈനയിലെ മോഡലും ഇന്ത്യയിലെ നൈതിക മോഡലും ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് ഭാരതീയ Culture ലഭിക്കുന്ന വിവിധ ധാർമിക വശങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും സംഘടനയുടെ ശരിയായ പ്രവർത്തനത്തിന് വളരെ പ്രധാനമാണ് കോർപ്പറേറ്റ് ഭരണത്തിൽ നിന്ന് അക്കൌണ്ടിംഗ് പരിണാമത്തെ കുറിച്ചും അക്കൌണ്ടിംഗ് ദീപാവലിയും ആയി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പുരാതന ഇന്ത്യയിൽ വിവിധതരത്തിലുള്ള shreni സംഘടനകൾ നിലനിന്നിരുന്നതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അതിനാൽ അക്കൌണ്ടിംഗ് ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു പിന്നീട് വീണ്ടും പ്പ്രസ്താവനകളിലേക്ക് പോയി സാമ്പത്തിക പ്രസ്താവനകളെ കുറിച്ച് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നീട് രണ്ട് മൂന്ന് വ്യവസായങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ കമ്പനികളെ ഉൾപ്പെടുത്തി പഠിച്ചു അതുമായി ബന്ധപ്പെട്ട PL ബാലൻസ് ഷീറ്റ് പണമൊഴുക്ക് എന്നീ വിവിധ സാമ്പത്തിക പ്രസ്താവനകൾ പഠിച്ചു അതിൽ നിന്ന് നമ്മൾ ഹിൻഡാൽകോ യുടെ ഒരു കേസ് പഠിച്ചു അതുവഴി മൂന്ന് പ്രസ്താവനകളും വിശദമായി മനസ്സിലാക്കി ശേഷം നമ്മൾ സാമ്പത്തിക പ്രസ്താവനകളുടെ വിശകലനത്തിലേക്കാണ് പോയത് വിശകലനത്തിൽ നമ്മൾ തയ്യാറാക്കിയ പ്രസ്താവനകൾ എടുത്തു ചിലപ്പോൾ നമ്മൾ ചില അധിക ഡാറ്റ എടുക്കുകയും ചെയ്തു അതുവഴി വിശകലനം ചെയ്യാനും പ്രസ്താവനയിൽ നിന്ന് ചില വ്യാഖ്യാനങ്ങൾ എടുക്കാനും കഴിയും ഒരു പോർട്ടഫോളിയോ മാനേജ്മെൻറ് കോണിൽനിന്ന് ഇത് അടിസ്ഥാന വിശകലനത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ കണ്ടു അടിസ്ഥാന വിശകലനത്തിൽ കമ്പനി വിശകലനം സമ്പത്ത് വ്യവസ്ഥ വിശകലനം വ്യവസായ വിശകലനം എന്നിങ്ങനെ മൂന്നു ഘടകങ്ങളുണ്ട് അതിൽ കമ്പനി വിശകലനത്തിൽ നമ്മൾ ശ്രദ്ധകേന്ദ്രീകരിച്ചു അത് നമ്മൾ പഠിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതാണ് ഒരുപാട് അനുപാതങ്ങളെ പറ്റി പഠിച്ചു അവ ഏതെല്ലാം ആണെന്ന് ഓർക്കുന്നുണ്ടോ ലിക്വിഡിറ്റി റേഷ്യോകറൻറ് റേഷ്യോ ധനകാര്യ സ്റ്റേറ്റ്മെൻറ് സ്ഥിരതയുമായി ബന്ധപ്പെട്ട റേഷ്യോ കടം ഇക്വിറ്റി അഥവാ ക്യാപിറ്റൽ ഗിയറിംഗ് Ratioഎന്നിവ ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ചു മനസ്സിലാക്കി പിന്നീട് വരുമാന പ്രസ്താവനയിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ പ്രവർത്തനലാഭം Ratio പോലുള്ള ലാഭക്ഷമത അനുപാതം കണക്കാക്കി തുടർന്ന് നമ്മൾ വിവിധതരത്തിലുള്ള റിട്ടേൺ അനുപാതങ്ങൾ കണക്കാക്കി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ROI നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺ മുഴുവൻ കമ്പനിക്കും കണക്കാക്കാം ഇത് ഒരു പ്രത്യേക പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക എസ്ബിയു അല്ലെങ്കിൽ കമ്പനിയുടെ ഡിവിഷനോ കണക്കാക്കാം ഇത് പ്രോജക്ടുകൾ വിലയിരുത്തുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡമായി മാറുന്നു ROE എന്നറിയപ്പെടുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡർ മാരുടെ ഫണ്ടുകളിൽ നിന്നുള്ള വരുമാനമോ വിറ്റുവരവ് അല്ലെങ്കിൽ പ്രവർത്തന അനുപാതങ്ങൾ അല്ലെങ്കിൽ കാര്യക്ഷമത അനുപാതങ്ങൾ എന്നറിയപ്പെടുന്ന മറ്റുതരത്തിലുള്ള അനുപാതങ്ങൾ കണ്ടുപിടിച്ചു ഉദാഹരണത്തിന് മൊത്തം അസറ്റ് വിറ്റുവരവ് അല്ലെങ്കിൽ inventory വിറ്റുവരവ് അല്ലെങ്കിൽ കടക്കാരുടെ വിറ്റുവരവ് അല്ലെങ്കിൽ സ്ഥിര ആസ്തി വിറ്റുവരവ് ഈ അനുപാതങ്ങൾ ആ അസറ്റിന്റെ ഉപയോഗത്തിലെ കാര്യക്ഷമതയെ അളക്കുന്നു കൂടാതെ സാധനങ്ങളുടെ വിറ്റുവരവ് എന്ന അനുപാതം ദിവസത്തിൻറെ കണക്കിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു അതിനാൽ ബാലൻസ് ഷീറ്റിൽ എത്ര ദിവസത്തെ ഇൻവെന്ററി അല്ലെങ്കിൽ എത്ര ദിവസത്തെ സ്വീകാര്യത ഉണ്ടെന്ന് നമുക്കറിയാം ഇതെല്ലാമാണ് ധനകാര്യ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട അനുപാതങ്ങൾ പിന്നീട് ഓഹരിവിപണിയിൽ ലാഭവിഹിതം അല്ലെങ്കിൽ ലാഭവിഹിതം പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റിന് ഉപയോഗപ്രദം ആകുന്ന മറ്റ് അനുപാതങ്ങൾ ഉണ്ടാക്കി ഉദാഹരണത്തിന് PE അനുപാതം ഇത് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർക്ക് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് മറ്റ് അനു പാദങ്ങളെ പറ്റി അറിയും ആയിരിക്കാം ഉദാഹരണത്തിന് ജീവനക്കാരനു ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ ലാഭവിഹിതം എന്നിവയായിരിക്കും അതുപോലെയുള്ള മറ്റു ചില അനുപാതങ്ങൾ കണക്കാക്കാൻ നിങ്ങൾക്ക് ചില ബാഹ്യ ഡാറ്റ എടുത്ത് സാമ്പത്തിക പ്രസ്താവനകളുമായി ലിങ്ക് ചെയ്യാനും കഴിയും അതിനാൽ ഇത് നമ്മളുടെ ചർച്ചയുടെ ഏതാണ്ട് അവസാനഭാഗത്ത് എത്തിയിരിക്കുന്നു ചർച്ച ചെയ്യാത്ത ചില ആശയങ്ങൾ ഉണ്ടാകാം അക്കൌണ്ടിംഗ് or Finance താല്പര്യമുള്ളവർ അവ കൂടുതൽ പഠിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു അവയിലൊന്നാണ് പരിസ്ഥിതി അക്കൌണ്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ അക്കൌണ്ടിംഗ് ഒരു പ്രത്യേക പ്രോജക്റ്റിനു കമ്പനിയ്ക്കോ പരിസ്ഥിതി വരുത്തുന്ന ആഘാതം അളക്കാൻ ഞാൻ വേണ്ടി ഇവ ഉപയോഗിക്കുന്നു പണപ്പെരുപ്പത്തിന്റെ ആഘാതം അളക്കാൻ ശ്രമിക്കുന്ന പണപ്പെരുപ്പ അക്കൌണ്ടിംഗ് എന്ന മറ്റൊരു ആശയം ഉണ്ട് അക്കൌണ്ടിംഗ്ൻറെ മറ്റൊരു പ്രധാന ആകർഷണം മാനവവിഭവശേഷി അക്കൌണ്ടിംഗ് ആണ് മാനവവിഭവശേഷി ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്താണെന്ന് നമ്മൾ കണ്ടു പക്ഷേ അവ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ കഴിയില്ല കാരണം അവ ഓർഗനൈസേഷന്റെ ഉടമസ്ഥതയിലുള്ളതല്ല ഇപ്പോൾ എച്ച്ആർഎ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൌണ്ടിങ് പോലുള്ള ആശയങ്ങൾ ഉണ്ട് അവിടെ മാനവവിഭവങ്ങളെ വിലയിരുത്തുന്നതിനും വിലമതിക്കുന്നതിനും ഒരു പ്രത്യേക രൂപത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ചില ശ്രമങ്ങൾ നടക്കുന്നു അതിനാൽ അക്കൌണ്ടിംഗ്ഗിൽ വിവിധ സമകാലിക അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ വരുന്നു നമ്മളുടെ ചർച്ചയിൽ അക്കൌണ്ടിങ് മാനദണ്ഡങ്ങളെ കുറിച്ചോ GAAPയെ കുറിച്ചോ നമ്മൾ ചുരുക്കമായി ചർച്ച ചെയ്തിട്ടുണ്ട് വിവിധ അക്കൌണ്ടിംഗ് മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദമായി അറിയാൻ കഴിയും അവ വിവിധ ബോർഡുകൾ പുറപ്പെടുവിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ ഇവ വിവിധ കമ്പനികൾ ഉപയോഗിക്കുന്നു എന്നിവ മനസ്സിലാക്കുക അതിനാൽ Accountഗ്ഗിൽ പഠിക്കാൻ കഴിയുന്ന നിരവധി വശങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ താല്പര്യം വളർത്തി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിക്ഷേപ അക്കൌണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ് അക്കൌണ്ടിംഗ് ബ്രാഞ്ച് അക്കൌണ്ടിംഗ് എന്നിങ്ങനെ ചില ആശയങ്ങളും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ അടിസ്ഥാന ധാരണ വികസിപ്പിച്ചെടുത്ത അതിനാൽ വിശദമായ അക്കൌണ്ടിംഗ് പഠനത്തിലേക്ക് or വെബ് കോഴ്സുകൾക്കോ പോകുക അതുവഴി നിങ്ങൾക്ക് അക്കൌണ്ടിംഗ് കൂടുതൽ ആശയങ്ങൾ പഠിക്കാനും കഴിയും നമ്മളുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ഷീറ്റുകൾ നിങ്ങൾക്ക് പങ്കിട്ടിട്ടുണ്ട് അതിൽ ആദ്യമായി വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള അസൈൻമെൻറ് അതിൽ വിവിധ കേസുകളുണ്ട് നിങ്ങളുമായി പങ്കിട്ടതിൽ ആശയപരമായ വശങ്ങളും ഉണ്ട് അവയിലൂടെ പോകാനും നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് സംശയം വരുകയാണെങ്കിൽ ഞങ്ങളുടെ ചർച്ച ഫോറത്തിൽ വരുക അത് എല്ലായിപ്പോഴും സജീവമാണ് കൂടാതെ നിങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് ഗവേഷണ പണ്ഡിതരും ഐഐടിയുടെ പ്രൊഫസർമാരും അതിൽ പങ്കെടുക്കുന്നു അതിനാൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് തുടരുക പിയർ ഗ്രൂപ്പിൽ ഇത് ഞങ്ങളുടെ research scholars ചർച്ച ചെയ്യുകയും അത് നിങ്ങൾക്കായി തുടർച്ചയായ പഠനത്തിന് സഹായിക്കുകയും ചെയ്യും ഞങ്ങൾ തീർച്ചയായും ഒരു proctored exam നടത്താൻ പോകുന്നു കൂടാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല പരീക്ഷയ്ക്ക് ഇവയെ മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് വളരെയധികം ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ കോർപ്പറേറ്റ് ജീവിതത്തിന് ആകാം നിങ്ങളുടെ കരിയറിനെ സാമ്പത്തിക പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിലയിരുത്താം നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ ഇത് വളരെ പ്രയോജനപ്പെടും അഥവാ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എംബിഎ അല്ലെങ്കിൽ പിഎച്ച്ഡി എന്നിവയ്ക്ക് ഇവ ഉപയോഗപ്രദമാകും അതിനാൽ പരീക്ഷയ്ക്കും തുടർപഠനത്തിനും എല്ലാ വിധ ആശംസകളും നേരുന്നു